നമുക്ക് ഇപ്പോൾ ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു ആംപ്ലിഫയർ ഉണ്ട് അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജമാക്കുന്നു കൂടാതെ ഗേറ്റിലേക്കും സോഴ്സിലേക്കും കണക്റ്റുചെയ്തിരിക്കുന്ന സിഗ്നൽ സോഴ്സും ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ വരുന്ന ലോഡ് റെസിസ്റ്റൻസുമുള്ള സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്യുവാലന്റ് സർക്യൂട്ട് സജ്ജീകരിക്കുന്നു നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സർക്യൂട്ട് ഇവിടെ ഗേറ്റും സോഴ്സും തമ്മിലുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് വോൾട്ടേജ് സജ്ജീകരിക്കുന്നതിനു വേണ്ടി സോഴ്സുമായി സീരീസിലുള്ള സിഗ്നൽ സോഴ്സ് ആയിരുന്നു നമ്മുടെ ഈ ഉദാഹരണത്തിൽ അത് മൂന്ന് വോൾട്ട് ആയിരുന്നു MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനും സോഴ്സിനും കുറുകേ ഇത് ഉണ്ട് ഡ്രെയിനിന്റെ വശത്ത് നമുക്ക് ഡ്രെയിനുമായുള്ള സീരീസിൽ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട് കൂടാതെ നമുക്ക് ഒരു ബയാസ് വോൾട്ടേജ് ഉണ്ടായിരിക്കണം അത് VDS0 പ്ലസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കറൻറ് ഗുണിക്കണം R L ആണ് ഇത് MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിനും സോഴ്സിനും ഇടയിലുള്ള VDS സീറോ ഓപ്പറേറ്റിങ് പോയിന്റ് നിശ്ചയിക്കുന്നു കൂടാതെ R നു കുറുകെ ID 0 R L ഡിസി വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാക്കുന്നു നമ്മുടെ ന്യൂമെറിക്കൽ ഉദാഹരണത്തിൽ VG S 0 മൂന്നു വോൾട്ട് ആയിരുന്നു കൂടാതെ VD S 0 യും മൂന്ന് വോൾട്ട് ആയിരുന്നു ഇതെല്ലാം കൂടി 200 മൈക്രോ ആമ്പിയർ ഓപ്പറേറ്റിങ് പോയിന്റ് കറൻറ് ഉള്ള ID 0 നല്കുന്നു അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് വ്യവസ്ഥകളെല്ലാം നമുക്ക് അറിയാം നമ്മളിപ്പോൾ ഇരുനൂറ് മൈക്രോ സീമെൻസിന്റെ g m ലഭിക്കുന്നതിന് ഈ ഓപ്പറേറ്റിംഗ് പോയിൻറ് വരെ എത്തി അത് ഗെയിൻ 20 നേടുന്നതിനായിരുന്നു ഇതിനായി ഡ്രെയിന്റെ വശത്തുള്ള വോൾട്ടേജ് സോഴ്സ് ഇരുപത്തിമൂന്ന് വോൾട്ട് ആയിരിക്കണം നമുക്കറിയാം VS നെ പൂജ്യമായി സജ്ജീകരിച്ച ഇതിന്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ് ചിത്രത്തിൽ നമുക്ക് മൂന്ന് വോൾട്ട്സ് ഉണ്ട് നൂറ് കിലോ ഓം വരുന്ന RS ഇരുപത്തിമൂന്ന് വോൾട്ട്സ് നൂറു കിലോ ഓംസ് വരുന്ന RL എന്നിവയുണ്ട് ഞാൻ നിങ്ങൾക്ക് സർക്യൂട്ട് നൽകിയാലും ഇത് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് വിലയിരുത്തി ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് ഇരുനൂറ് മൈക്രോ ആമ്പിയറാണെന്ന് കാണാനാകും വാസ്തവത്തിൽ ഇത് പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു പുതിയ സർക്യൂട്ടാണ് ഇതെന്ന് കരുതുക എന്നിട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് വിലയിരുത്തുക ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററുകളെക്കുറിച്ച് ഒരു കാര്യം ഓർക്കുക അത് ആക്റ്റീവ് മേഖലയിലോ സാച്ചുറേഷൻ മേഖലയിലോ അല്ലെങ്കിൽ കട്ട് ഓഫ് മേഖലയിലോ ആയിരിക്കും അതിനാൽ നിങ്ങൾ ഇവയെല്ലാം ശ്രമിച്ച് നോക്കണം ഇത് തീർച്ചയായും ഒരു പുതിയ കാര്യമല്ല ഡയോഡുകളുടെ കാര്യത്തിലും ഡയോഡ് ഓണോ ഓഫോ ആകാം അതിനാൽ നിങ്ങൾ ഡയോഡുകൾ ഉള്ള ഒരു സർക്യൂട്ടിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് വിശകലനം ചെയ്യുമ്പോൾ ഓരോ ഡയോഡും സാച്ചുറേഷനിൽ അല്ലെങ്കിൽ ലീനിയറിൽ ആയിരുന്നെന്ന് നിങ്ങൾ അനുമാനിക്കണം കണക്കുകൂട്ടലുകൾ നടത്തി ഏതാണ് സ്ഥിരതയാർന്നതെന്ന് കണ്ടുപിടിക്കണം ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് അതിനാൽ ഇത് ട്രയോഡാണെന്ന് അനുമാനിക്കാൻ ശ്രമിക്കാം ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കുമ്പോൾ ഇത് സാച്ചുറേഷൻ ആണെന്ന് കരുതുക ഓപ്പറേറ്റിംഗ് പോയിന്റുകൾ കണക്കാക്കി ഏതാണ് അസ്ഥിരമായതെന്ന് കണ്ടുപിടിക്കുക അത് കട്ട് ഓഫിലാണെങ്കിൽ എന്തുസംഭവിക്കുമെന്നും നിങ്ങൾക്ക് നോക്കാം എന്തായാലും അതും അസ്ഥിരമായെ വരികയുള്ളൂ ഇതിന്റെ ഇൻക്രിമെന്റൽ ചിത്രം എന്നു പറയുന്നത് ഇൻക്രിമെന്റൽ സോഴ്സ് പൂജ്യമല്ലാത്തത് മാത്രം ഉപയോഗിച്ച് ഉള്ളതാണ് ഫിക്സഡ് ആയിട്ടുള്ള സോഴ്സ്കൾ എല്ലാം പൂജ്യമായിരിക്കും ഞാൻ RL ഇതുപോലെ കാണിക്കാം പക്ഷേ ഇത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതിന് ചെയ്തതതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നു ഇത് മൈനസ് 20 ഗെയിൻ നൽകുന്നു അതായത് RL നു കുറുകേയുള്ള ഇൻക്രിമെൻറൽ വോൾട്ടേജ് മൈനസ് 20 ഗുണിക്കണം ഇൻക്രിമെൻറൽ വോൾട്ടേജ് VS ആണ് ഇതിന് ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റും ഉണ്ട് എന്നാൽ ഇതിൽ മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് അതിനാൽ നമുക്ക് അവയൊന്ന് നോക്കാം ഒന്നാമതായി ഇൻപുട്ട് സോഴ്സ് ഇതുപോലെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ ഇത് ഇൻപുട്ട് സോഴ്സിന്റെ മാതൃക മാത്രമാണ് ഇൻപുട്ട് സോഴ്സുകൾ യഥാർത്ഥത്തിൽ ഒരു റെസിസ്റ്റൻസ് ഉള്ള വോൾട്ടേജ് സോഴ്സാണെന്ന് ഇതിനർത്ഥമില്ല കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് അതിന്റെ രണ്ട് ടെർമിനലുകളെ ബന്ധിപ്പിക്കാൻ കഴിയും വളരെ പതിവായി ചെയ്യുന്നത് ഇതിന്റെ ടെർമിനലുകളിലൊന്നായ ഈ ടെർമിനലിനെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കുകയാണ് ഇവിടെ ഗ്രൌണ്ട് എന്നതിനർത്ഥം സർക്യൂട്ടിന്റെ പൊതു റഫറൻസ് നോഡ് ഏത് തന്നെയായാലും അതാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം ഈ സോഴ്സിനെ യഥാർത്ഥത്തിൽ മറ്റൊരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആയി പരിഗണിക്കുക എന്നതാണ് ഒരു എളുപ്പമുള്ള ഉദാഹരണം ഈ പോയിൻറുകൾക്കിടയിൽ ഇൻപുട്ട് ഉള്ളതും ഒരു കോമൺ പോയിന്റ് ഗ്രൌണ്ട് ആയിട്ടുള്ളതും കൂടാതെ ഈ പോയിന്റിനും കോമൺ പോയിന്റ് ആയ ഗ്രൌണ്ടിനും ഇടയിൽ തന്നെ ഒരു ഔട്ട്പുട്ട് ഉള്ളതും ആയിട്ടുള്ള ഒരു ത്രികോണം ഉപയോഗിച്ചാണ് ആംപ്ലിഫയറിനെ സാധാരണയായി ചിത്രീകരിക്കുന്നത് ഇത് പതിവായി നേരിടുന്ന ഒരു കേസാണ് കാരണം നിങ്ങൾ ആംപ്ലിഫയറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഇൻപുട്ട് സോഴ്സ് ശരിക്കും മറ്റൊരു ആംപ്ലിഫയറാണ് ഈ ചിത്രീകരണം ഇപ്പോഴും സാധുവാണ് ഇതിനെ ചിത്രീകരിക്കുന്നത് VS RS മായി സീരീസിലായിട്ടാണ് ഒരേയൊരു പ്രശ്നം ഇത് ഒരു ഫ്ലോട്ടിംഗ് വോൾട്ടേജ് സോഴ്സ് അല്ല എന്നതാണ് അതായത് ഈ രണ്ട് ടെർമിനലുകളും എവിടെയെങ്കിലും സ്വതന്ത്രമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല ഈ ടെർമിനൽ ഗ്രൌണ്ട് ആയിരിക്കണം നമ്മുടെ കാര്യത്തിൽ ഇത് അങ്ങനെയല്ല അതുപോലെ ലോഡ് RL എന്നുപറയുന്നത് ആംപ്ലിഫയറിനുശേഷം വരുന്ന എന്തിനേയും പ്രതിനിധാനം ചെയ്യുന്നു അതാണ് ലോഡ് ഇതിന് രണ്ട് ടെർമിനലുകൾ എന്തുമായും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ റെസിസ്റ്ററായിരിക്കണമെന്നില്ല അതിനാൽ വ്യക്തമായ ഉദാഹരണം ഇത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ആകാം എന്നതാണ് അതിനാൽ ഇത് ലോഡ് ആകാം അതായത് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ നിങ്ങൾക്ക് RLന്റെ ഒരു റെസിസ്റ്റൻസ് കാണാം പക്ഷേ ഇത് വ്യക്തമായും രണ്ട് ടെർമിനലുകൾ സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് നോഡുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു റെസിസ്റ്റൻസ് അല്ല കാരണം ഈ നോഡ് ഇതിനകം തന്നെ സർക്യൂട്ടിന്റെ കോമൺ റഫറൻസ് നോഡാണ് അതിനാൽ ഇതേ ഉദാഹരണം വഴി ഒരു ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് RL നെ പ്രതിനിധീകരിക്കാമെന്ന് മനസിലാക്കാം കൂടാതെ ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് സോഴ്സ് ആയ VSRSനെ പ്രതിനിധീകരിക്കാമെന്നും ഇവയിലേതെങ്കിലും ഞാൻ കാണിച്ച കോൺഫിഗറേഷനിൽ ബന്ധിപ്പിക്കാൻ കഴിയും ഈ വോൾട്ടേജുമായി RL നെ സീരീസിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല ഇതു അതുമായി സീരീസിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല നമുക്ക് 23 വോൾട്ടും 3 വോൾട്ടുമുള്ള രണ്ട് dc സോഴ്സ്കൾ ഉണ്ട് എന്നതാണ് വേറൊരു പ്രശ്നം ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കുന്നതിന് മാത്രമാണ് ഇതും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉപകരണങ്ങളുമായി പരിചയമില്ലേ അവിടെ ഒരു സിംഗിൾ സോഴ്സ് അല്ലെങ്കിൽ ഒരു ബാറ്ററി ഉണ്ട് എന്നാൽ ഒരൊറ്റ ആംപ്ലിഫയറിനായി നമുക്ക് രണ്ട് dc സോഴ്സ്കൾ ആവശ്യമാണ് നിങ്ങൾക്ക് നൂറുകണക്കിന് ആംപ്ലിഫയറുകൾ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നൂറ് ആംപ്ലിഫയറുകൾക്കായി ഈ ഇരുനൂറ് ബാറ്ററികൾ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല ഒരൊറ്റ സോഴ്സിൽ നിന്ന് ഈ എല്ലാ dc വോൾട്ടേജുകളും കൊടുക്കണം നിങ്ങളുടെ സൌകര്യാർത്ഥം അതിനെ ഏറ്റവും ഉയർന്ന സോഴ്സ് ആക്കാം അതായത് 23 വോൾട്ടുകളുടെ സിംഗിൾ സോഴ്സ് ലഭ്യമാണ് പിന്നീട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് 23 വോൾട്ടുകളിൽ നിന്ന് 3 വോൾട്ട് സൃഷ്ടിക്കാനും അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാനും പറ്റും സോഴ്സും ലോഡും ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ടട്ടില്ല എന്നതാണ് രണ്ട് പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ലോഡ് റെസിസ്റ്റൻസ് RLന്റെ ടെർമിനലുകളിലൊന്ന് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് അതിനർത്ഥം കൂടാതെ സോഴ്സ് വോൾട്ടേജിന്റെ ടെർമിനലുകളിലൊന്ന് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം നമ്മുടെ ടോപ്പോളജിയിൽ ഇത് അങ്ങനെയല്ല രണ്ടാമതായി ഇതിന് ഒന്നിലധികം dc ബയസ് സോഴ്സ്കളും ആവശ്യമാണ് ഇതും തീരെ അഭികാമ്യമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ dc ബയാസ് വാല്യൂകളും ലഭിക്കുന്ന സിംഗിൾ സപ്ലെ വോൾട്ടേജ് സോഴ്സ് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇനിപ്പറയുന്ന പാഠങ്ങളിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് കാണാം